ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്ലാസിലേക്ക് തിരികെ സ്വാഗതം ഞാൻ ആരാധന മാലിക് ഈ കോഴ്സിൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്നു സ്ട്രാറ്റജിക് ഹ്യൂമൺ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്ട്രാറ്റജിക് ഹ്യൂമൺ റിസോഴ്സ് മാനേജ്മെന്റിന്റെ വിവിധ കോണുകൾ ഞാൻ നിങ്ങളുമായി പങ്കിട്ടു ഈ പ്രഭാഷണത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കും ഞാൻ ഇവിടെ പരാമർശിച്ച പേപ്പറുകളുടെ ഉറവിടങ്ങൾ ഇവയാണ് ഗെർപോട്ടിന്റെ ഒരു പേപ്പറും ക്രമർ എഴുതിയ മറ്റൊരു പേപ്പറും ഞാൻ പരാമർശിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പേപ്പറുകൾ കാണിക്കാം അതിനാൽ ഇതാണ് ഗെർപോട്ടിന്റെ പേപ്പർ ഈ പേപ്പറിനെ വിളിക്കുന്നത് ദി റൈറ്റ് സ്ട്രാറ്റജി എക്സാമിനിങ് ദി ബിസിനസ് പാർട്ണർ മോഡൽസ് ഫംഗ്ഷണാലിറ്റി ഫോർ റിസോൾവിങ് ഹ്യൂമൻ റിസോർസ് മാനേജ്മന്റ് ടെൻഷൻസ് ആൻഡ് ഡിസ്ക്കസിങ് ആൾട്ടർനേറ്റീവ് ഡയറക്ഷൻസ് The right strategy Examining the business partner model's functionality for resolving Human Resource Management tensions and discussing alternative directions എന്നാണ് കൂടാതെ ക്രാമർ റോബിൻ ക്രാമർ എഴുതിയ മറ്റൊരു പേപ്പറുമുണ്ട് ബിയോണ്ട് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോർസ് മാനേജ്മെന്റ് ഈസ് സസ്റ്റൈനബിൾ ഹ്യൂമൻ റിസോർസ് മാനേജ്മെന്റ് ദി നെക്സ്റ്റ് അപ്പ്രോച്ച് Beyond strategic human resource management Is sustainable human resource management the next approach എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഭാവികളിലൊന്നാണ് നെറ്റ്വർക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ക്ലാസിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ചില ടെൻഷനുകൾ ഞാൻ നിങ്ങളുമായി പങ്കിടും അത് കഴിഞ്ഞ് ഭാവിയിലേക്കുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മോഡലായ സുസ്ഥിര ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കും അതിനാൽ നിങ്ങളെ എല്ലാവരെയും പോലെ വളർന്നുവരുന്ന എച്ച്ആർ പ്രൊഫഷണലുകൾക്കുള്ള രണ്ട് ഭാവി ദിശകൾ HRM ലെ വിരോധാഭാസമായ ടെൻഷനുകൾ എന്തുകൊണ്ടാണ് ഫീൽഡ് വികസിപ്പിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫീൽഡ് വികസിപ്പിക്കേണ്ടത് ചില ടെൻഷനുകൾ കാരണം ചില അതൃപ്തികൾ കാരണം ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ചില കാര്യങ്ങൾ മെച്ചപ്പെടേണ്ടതുണ്ട് ഫീൽഡ് വികസിക്കേണ്ടതുണ്ട് വിരോധാഭാസങ്ങളെ നിർവചിച്ചിരിക്കുന്നത് പരസ്പരവിരുദ്ധവും എന്നാൽ പരസ്പരബന്ധിതവുമായ ഘടകങ്ങൾ ഒരേസമയം നിലനിൽക്കുന്നതും കാലാകാലങ്ങളിൽ നിലനിൽക്കുന്നതുമാണ് അതിനാൽ വിരോധാഭാസങ്ങൾ രണ്ടാണ് വളരെ വിരുദ്ധമായ വളരെ പ്രസക്തമായ വീക്ഷണങ്ങൾ ഒരേ സമയം നിലനിൽക്കുന്നതും പ്രശ്നത്തെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് വലിക്കുന്നതുമാണ് വിരോധാഭാസ ടെൻഷനുകൾ വിരോധാഭാസങ്ങളുടെ രണ്ട് വിപരീത ധ്രുവങ്ങൾ മൂലമുണ്ടാകുന്ന അവസ്ഥകളും പ്രതിഭാസങ്ങളും ഉൾക്കൊള്ളുന്നു രണ്ട് വ്യത്യസ്ത കോണുകൾ ഉണ്ടായിരിക്കണം രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങൾ ഉണ്ടായിരിക്കണം ഒരു പ്രശ്നത്തെക്കുറിച്ച് രണ്ട് വ്യത്യസ്തമായ വളരെ ശക്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് വലിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ ശക്തമായ രണ്ട് വശങ്ങൾ അതിനെ ഒരു വിരോധാഭാസം എന്ന് വിളിക്കുന്നു എച്ച്ആർഎം പ്രൊഫഷണലുകൾ തങ്ങൾക്ക് അർഹതയുണ്ടെന്ന് അവർ കരുതുന്ന ഉയർന്ന വിലമതിപ്പ് തമ്മിലുള്ള ടെൻഷനുമായി നിരന്തരം പോരാടുകയാണ് കാരണം കമ്പനികളിൽ യഥാർത്ഥത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫായി സ്വീകരിച്ച താഴ്ന്ന നിലയിലുള്ള HRM പ്രൊഫഷണലുകൾ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സര വിഭവമായി ജീവനക്കാരെ നിയന്ത്രിക്കുന്നു അതിനാൽ ഞാൻ സംസാരിക്കുന്നത് എച്ച്ആർ പ്രൊഫഷണലുകളുടെ ജീവിതത്തെക്കുറിച്ചാണ് ഇതാണ് ഈ പേപ്പറിൽ പറയുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിന് വളരെ പ്രസക്തമായ ഒന്നാണ് HRM ലെ വിരോധാഭാസമായ ടെൻഷനുകളുടെ ചില വിഭാഗങ്ങൾ എച്ച്ആർ പ്രൊഫഷണലിനെയും എച്ച്ആർ മാനേജർമാരെയും സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ആദ്യത്തെ ടെൻഷൻ ജീവനക്കാർക്ക് അനുഭവപ്പെടുന്ന ഐഡന്റിറ്റിയുടെ ടെൻഷനുകൾ അവർ ക്ലയന്റുകൾക്ക് വേണ്ടി വാദിക്കുന്നവരായാലും അല്ലെങ്കിൽ മാനേജർമാരുടെ വാർഡുകളായാലും മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു പഠനത്തിന്റെ ടെൻഷനുകൾ ഉണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാർ എപ്പോഴാണ് പുതിയ അറിവ് നേടേണ്ടത് മാറ്റത്തിനെതിരായ സ്ഥിരത എനിക്ക് എല്ലാം അറിയുമോ ഞാൻ കൂടുതൽ പഠിക്കേണ്ടതുണ്ടോ എന്റെ ജീവനക്കാർക്ക് കൂടുതൽ പരിശീലനം നൽകേണ്ടതുണ്ടോ എനിക്ക് കൂടുതൽ പരിശീലനം ആവശ്യമുണ്ടോ ജീവനക്കാർക്ക് ആവശ്യമുണ്ടോ അവർ ചെയ്യുന്നത് ശരിയാണോ ഓർഗനൈസേഷന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങളുമായി ഇത് എങ്ങനെ യോജിക്കുന്നു എവിടെ ചെയ്യണം ഞാൻ എവിടെ വര വരയ്ക്കണം എത്ര ഞാൻ നിക്ഷേപിക്കണം എന്ത് സംഭവിച്ചാലും അതിന്റെ പുരോഗതി വിലയിരുത്താൻ ഞാൻ എപ്പോഴാണ് തീരുമാനിക്കേണ്ടത് ഇതെല്ലാം സ്ട്രാറ്റജിക് എച്ച്ആർഎമ്മിന്റെ ഭാഗമാണ് ഓർഗനൈസിംഗ് ടെൻഷൻ ഇത് എച്ച്ആർ മാനേജരുടെ മേൽ വളരെയധികം ഭാരം ചുമത്തുന്നു കാരണം എച്ച്ആർ മാനേജർ ഈ ആവശ്യങ്ങൾ തുടർച്ചയായി കണ്ടെത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ വിലയിരുത്തേണ്ടതുണ്ട് മൂന്നാമത്തെ ടെൻഷൻ സംഘാടനത്തിന്റെ ടെൻഷൻ എങ്ങനെയാണ് എച്ച്ആർ മാനേജർമാർ പ്രോസസുകൾ ഓർഗനൈസ് ചെയ്യേണ്ടത് പ്രോസസുകളുടെ നിലനിർത്തലും ഡെലിഗേഷനും ചെയ്യേണ്ടത് അവർ സ്വന്തമായി എത്രമാത്രം ചെയ്യണം എന്താണ് അവർ നിയോഗിക്കേണ്ടത് എന്താണ് അവർ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടത് മറ്റ് ജീവനക്കാർ എത്ര ചെയ്യണം ആരൊക്കെ എന്തൊക്കെ ചെയ്യണം ഇതെല്ലാം നിരന്തരം എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് പ്രകടനത്തിന്റെ ടെൻഷനുകൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാരുടെയും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വകുപ്പിന്റെയും മൊത്തത്തിലുള്ള പ്രാഥമിക ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇത് പ്രവർത്തനപരമാണോ അതോ ഭരണപരമാണോ അതോ തന്ത്രപരമാണോ തന്ത്രപരം എന്നതിനർത്ഥം ഭാവിയെ ലക്ഷ്യമാക്കിയുള്ള എന്തെങ്കിലും ആണ് പ്രവർത്തനപരമെന്നാൽ ഇന്ന് സംഭവിക്കുന്ന ഒന്ന് ഇന്നത്തെ ജോലി തുടരുന്നത് ഇന്നത്തെ ജോലി നിലനിർത്തുന്നതാണ് അതിനാൽ ഹ്യൂമൺ റിസോഴ്സ് പ്രൊഫഷണലിന്റെ ജോലി എന്താണ് പിന്നെ എവിടെയാണ് ഒരാൾ വര വരയ്ക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ചെയ്യാനുള്ളതിൽ എത്രത്തോളം പ്രവർത്തനക്ഷമമാണ് എത്രത്തോളം തന്ത്രപരമാണ് കൂടാതെ നാളത്തെ തയ്യാറെടുപ്പിനായി എന്താണ് ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസം മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നതിന് ഇന്ന് എന്താണ് ചെയ്യേണ്ടത് അതാണ് എച്ച്ആർ പ്രൊഫഷണലുകൾ നിരന്തരം പോരാടുന്നത് ഈ പേപ്പറിൽ നിർദ്ദേശിച്ചിട്ടുള്ള ചില ചെറുക്കൽ തന്ത്രങ്ങൾ സ്പേഷ്യൽ വേർപിരിയലുകളാണ് എച്ച്ആർ മാനേജർമാർ എന്ന നിലയിൽ നിങ്ങൾ ഈ ടെൻഷനുകൾ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് വ്യത്യസ്ത സംഘടനാ യൂണിറ്റുകളിലുടനീളം വ്യത്യസ്ത ശ്രദ്ധാകേന്ദ്രങ്ങൾ നീക്കിവെക്കുക എന്നതാണ് അതിനാൽ നിങ്ങൾക്ക് ഈ വ്യത്യസ്ത ടെൻഷനുകളെ തരംതിരിക്കാം കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാം നിങ്ങൾക്ക് പറയാം ഈ പ്രത്യേക പ്രവർത്തനത്തെ പരാമർശിച്ച് ഇതാണ് ഈ സമയത്ത് ഞാൻ ചെയ്യേണ്ടതെന്ന് കൂടാതെ അത് ആ പിരിമുറുക്കം കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും അല്ലെങ്കിൽ ആ പ്രതിസന്ധി പരിഹരിക്കാൻ നിങ്ങളെ സഹായിക്കും അതിനാൽ നിങ്ങൾ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുക താൽക്കാലിക വേർപിരിയലിന്റെ ഭാഗമാണ് നിങ്ങൾ കാര്യങ്ങൾ നോക്കുന്നത് എന്താണ് ഉടനടി ചെയ്യേണ്ടതെന്നും എന്ത് കാത്തിരിക്കണമെന്നും തീരുമാനിക്കുന്നു എന്നിട്ട് ഒരു തീരുമാനം എടുക്കൂ വിരോധാഭാസത്തിന്റെ ഈ രണ്ട് ധ്രുവങ്ങളിൽ ഏതാണ് ഈ രണ്ട് വശങ്ങളിൽ ഏതാണ് അടിയന്തിരമായി ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ സമയത്ത് എന്താണ് കൂടുതൽ പ്രധാനം പിന്നീട് എന്തൊക്കെ നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാം സംശ്ലേഷണം വാക്കാലുള്ള അമൂർത്തീകരണത്തിലൂടെയോ സജീവമായി താമസത്തിലൂടെയോ എതിർ ധ്രുവങ്ങളുടെ ടെൻഷൻ കുറയ്ക്കുന്നു നിങ്ങൾക്ക് ഒരു മധ്യനിരയിലേക്ക് വരാം എച്ച്ആർ മാനേജർ എന്ന നിലയിൽ നിങ്ങളുടെ റോളിൽ ഇതിനെ നേരിടാനുള്ള ചില വഴികൾ ഇവയാണ് സുസ്ഥിര എച്ച്ആർഎം ഇത് മറ്റൊരു പേപ്പറിലാണ് ഇത് ഇന്ന് ഞാൻ നിങ്ങളോട് കൂടുതൽ വിശദമായി സംസാരിക്കും സുസ്ഥിര എച്ച്ആർഎം എന്നത് ഒരു ഓർഗനൈസേഷനെ പ്രാപ്തമാക്കാൻ ഉദ്ദേശിച്ചുള്ള ആസൂത്രിതമായ അല്ലെങ്കിൽ ഉയർന്നുവരുന്ന മാനവ വിഭവശേഷി തന്ത്രങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും മാതൃകയാണ് അതൊരു സംഘടനാ ലക്ഷ്യമായിരിക്കരുത് ഒരു ദീർഘകാല കലണ്ടർ വർഷത്തിൽ ഒരേസമയം എച്ച്ആർ ബേസ് പുനർനിർമ്മിക്കുകയും എച്ച്ആർ ബേസിലെ എച്ച്ആർ സിസ്റ്റങ്ങളിലെ ഫീഡ്ബാക്ക് ഇഫക്റ്റുകൾ നിയന്ത്രിക്കുകയും ചെയ്യുമ്പോഴും ഇത് ഒരു ഓർഗനൈസേഷണൽ ലക്ഷ്യ നേട്ടമായിരിക്കണം അതിനാൽ തന്ത്രപരമായ ലക്ഷ്യങ്ങളിൽ ഉറച്ചുനിൽക്കുമ്പോഴും ഓർഗനൈസേഷന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങളിൽ സംഭാവന നൽകുമ്പോഴും ഷോ പ്രവർത്തിപ്പിക്കുന്നത് നിലനിർത്താം ഇതാണ് നീണ്ട നിർവചനം നമുക്ക് ഒരു ലളിതമായ വിശദീകരണത്തിലേക്ക് വരാം സുസ്ഥിരമായ എച്ച്ആർ ഒരു ഓർഗനൈസേഷനെ ഒരു തുറന്ന സംവിധാനമായി അനുമാനിക്കുന്നു കുറഞ്ഞത് അത് മനുഷ്യവിഭവശേഷി ഉപഭോഗം ചെയ്യുന്നിടത്തോളമെങ്കിലും അത് വികസിപ്പിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അതിനാൽ കൂടാതെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന വിരോധാഭാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ എവിടെയാണ് എവിടേക്ക് പോകണം ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അടുത്തതായി എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയവയോടൊത്ത് നമ്മൾ നിരന്തരം പോരാടുകയാണ് അതിനാൽ സുസ്ഥിര എച്ച്ആർഎം നിങ്ങൾ ഉപയോഗിക്കുന്നതെന്തും നിങ്ങൾ നിരന്തരം നിറയ്ക്കുന്നു എന്ന് അനുമാനിക്കുന്നു നിങ്ങളുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നിങ്ങൾ നിരന്തരം സമയത്തിനൊപ്പം നിൽക്കുന്നു ഇന്നത്തെ അതിവേഗ ലോകത്തിനൊപ്പം സുസ്ഥിര എച്ച്ആർഎമ്മിന്റെ ലക്ഷ്യങ്ങൾ സുസ്ഥിരമായ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് നമ്മൾക്ക് വളരെ പ്രധാനമാണ് കാരണം ഓർഗനൈസേഷനുകളുടെ പ്രാഥമിക വിഭവം മനുഷ്യരാണ് ഞങ്ങളുടെ സഹകാരികളിലൊരാളായ പ്രൊഫസർ ഫാറൂഖ് മിസ്ത്രിയിൽ നിന്ന് ചില സമയങ്ങളിൽ റോബോട്ടുകൾ ലോകത്തെ എങ്ങനെ കൈയടക്കിയേക്കാം എന്നതിനെക്കുറിച്ച് എനിക്ക് ഈയിടെ ഒരു ലേഖനം ലഭിച്ചു പക്ഷേ മനുഷ്യർ ഒരിക്കലും ബിസിനസ്സിൽ നിന്ന് പൂർണ്ണമായും പുറത്താകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനാൽ നിങ്ങൾ ഷോ പ്രവർത്തിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ആളുകളെ എങ്ങനെ ഇടപഴകുന്നു നിങ്ങൾ എങ്ങനെയാണ് ആളുകളെ നിലനിർത്തുന്നത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ കഴിവുകൾ നിങ്ങൾ എങ്ങനെ വികസിപ്പിക്കും അതിലൂടെ ഔട്ട്ഗോയിംഗ് ഇൻകമിംഗ് സ്കില്ലുകളുടെയും കഴിവുകളുടെയും പ്രചോദനത്തിന്റെയും സംതൃപ്തിയുടെയും എല്ലാം സന്തുലിതമാക്കും ഒരു ദീർഘകാല കലണ്ടർ വർഷത്തിൽ കാര്യക്ഷമതയുടെയും സുസ്ഥിരതയുടെയും ദ്വൈതത അവ്യക്തതകളുടെ സന്തുലിതാവസ്ഥ എന്നിവയാണ് ലക്ഷ്യങ്ങൾ ഭാവിയിലെ അനിശ്ചിതത്വവും അവ്യക്തതകളും സന്തുലിതമാക്കുക കൂടാതെ കാര്യക്ഷമതയുടെയും സുസ്ഥിരതയുടെയും ദ്വൈതത ഞാൻ അർത്ഥമാക്കുന്നത് കാര്യക്ഷമതയും സുസ്ഥിരതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുക നിങ്ങൾക്ക് കഴിയുന്ന ഏറ്റവും മികച്ചത് ചെയ്യുന്നതിനും നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യുന്നതിന്റെ വേഗത നിലനിർത്തുന്നതിനും ഇടയിൽ നിങ്ങൾ എങ്ങനെ ഒരു ബാലൻസ് എടുക്കും ദീർഘകാലത്തേക്ക് അതുമായി സ്ഥിരത പുലർത്തുന്നതിനപ്പുറം അത് നിലനിർത്തണോ ഒരു ഓർഗനൈസേഷന്റെ മാനുഷികവും സാമൂഹികവുമായ വിഭവ അടിത്തറ വികസിപ്പിക്കുന്നതിനും പുനർനിർമ്മിക്കുന്നതിനും ഉദാഹരണത്തിന് പരസ്പര കൈമാറ്റ ബന്ധങ്ങളെ സഹായിക്കുന്നതിന് അതിനാൽ ബന്ധങ്ങളും നിലനിർത്തേണ്ടതുണ്ട് എന്നതാണ് മറ്റൊരു ലക്ഷ്യം ഔട്ട്പുട്ട് ഇൻപുട്ട് അനുപാതം ദീർഘകാലത്തേക്ക് നിലനിർത്തേണ്ടതുണ്ട് കൂടാതെ മാനവ വിഭവശേഷിയുടെ അടിത്തറയിലും മാനവ വിഭവശേഷിയുടെ ഉറവിടങ്ങളിലും മാനവ വിഭവശേഷി പ്രവർത്തനങ്ങളുടെ പ്രതികൂല ഫലങ്ങൾ വിലയിരുത്തുന്നതിനും കണക്കാക്കുന്നതിനും അതിനാൽ മാനവ വിഭവശേഷിയുടെ അടിത്തറയ്ക്കായി അവയുടെ കഴിവുകൾ അപ്ഡേറ്റ് ചെയ്ത് വിഭവങ്ങളുടെ സ്ഥിരമായ ഒഴുക്ക് എങ്ങനെ നേടുന്നു മുതിർന്നവർ പോകുമ്പോൾ പുതിയ ആളുകളെ ലഭിക്കുന്നു സക്സഷൻ പ്ലാനിംഗ് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നതെല്ലാം സുസ്ഥിരമായ മാനവ വിഭവശേഷി മാനേജ്മെന്റ് എന്ന ഈ സമ്പൂർണ ആശയത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നു പുറത്തേക്കുള്ള ഒഴുക്കിനൊപ്പം സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു ആളുകളെ വേണ്ടത്ര പ്രചോദിപ്പിക്കുക അതുവഴി അവരുടെ ഉൽപ്പാദനക്ഷമതയും അവരെ കഴിയുന്നത്ര ഉൽപ്പാദനക്ഷമമാക്കുക അതിനാൽ സ്ട്രാറ്റജിക് എച്ച്ആർഎമ്മിന്റെ ഭാവിയായ സസ്റ്റൈനബിൾ എച്ച്ആർഎമ്മിലൂടെ ഈ ബാലൻസുകൾ കൈവരിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കറിയാം HRM ന്റെ ഭാവി എന്താണ് സ്ട്രാറ്റജിക് HRM അല്ല ക്ഷമിക്കണം ഞാൻ കടമെടുത്ത സസ്റ്റൈനബിൾ HRM ന്റെ മോഡലാണിത് വീണ്ടും ഇത് വിശദാംശമല്ല ഇത് പൂർണ്ണമായ വിശദാംശമല്ല യഥാർത്ഥ മാതൃക പേപ്പറിലുണ്ട് ഈ മോഡലിന്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ പുനഃസൃഷ്ടിക്കാൻ ശ്രമിച്ചു ഈ മാതൃക പേപ്പറിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അത് ഈ പേപ്പറിൽ ഉള്ളതിനാൽ ആരെങ്കിലും അതിനെ എതിർക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഒരുപക്ഷേ അത് വിശദീകരിക്കാൻ എനിക്ക് പേപ്പറിലെ മോഡൽ ഉപയോഗിക്കാം അതിനാൽ അത് സ്ലൈഡിൽ ഇല്ല ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്യും നിങ്ങൾക്ക് ഇത് കുറച്ച് കാണാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നു അതിനാൽ ഇതാണ് മാതൃക ഈ മാതൃക അനുസരിച്ച് മനുഷ്യവിഭവശേഷിയുടെ ഉത്ഭവസ്ഥാനമായ മനുഷ്യവിഭവശേഷിയുടെ ഒരു സ്രോതസ്സുണ്ട് അത് ഹ്യൂമൺ ക്യാപിറ്റലിലേക്ക് മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്നതിലേക്ക് ഫീഡ് ചെയ്യുന്നു കൂടാതെ അതാകട്ടെ ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള തന്ത്രത്തെ ആശ്രയിച്ചിരിക്കുന്ന മാനവ വിഭവശേഷി മാനേജുമെന്റ് തന്ത്രം നയങ്ങൾ സമ്പ്രദായങ്ങൾ എന്നിവയുടെ ഈ മിശ്രിതത്തിലേക്ക് ഫീഡ് ചെയ്യുന്നു ഇത് സുസ്ഥിരതയുടെ വ്യാഖ്യാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ സുസ്ഥിരതയുടെ വ്യാഖ്യാനങ്ങൾ മാനദണ്ഡ പ്രകാരമായിരിക്കാം കാര്യക്ഷമതയുമായി ബന്ധപ്പെട്ടതും പദാർത്ഥവുമായി ബന്ധപ്പെട്ടതും ആകാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മാനദണ്ഡ പ്രകാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാര്യക്ഷമത ഉൽപ്പാദനക്ഷമതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ മാനദണ്ഡം വീടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാര്യക്ഷമത അനന്തരഫലമെന്താണെന്നതുമായും ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ പദാർത്ഥ സത്ത സാഹചര്യത്തിന്റെ മൂർച്ചയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു മാനദണ്ഡവും കാര്യക്ഷമതയും എപ്പോഴും പരസ്പരം ടെൻഷനിലാണ് കാരണം കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് കാര്യക്ഷമതയ്ക്ക് അനുസൃതമായിരിക്കില്ല നിങ്ങൾക്ക് ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാര്യക്ഷമത കുറയും വെട്ടിമുറിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ചില സ്ഥലങ്ങളിൽ അത് ആവശ്യമായി വന്നേക്കാം തുടർന്ന് കാര്യക്ഷമത പദാർത്ഥത്തെ ഇൻപുട്ടുകളെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ ഇവിടെ എപ്പോഴും ടെൻഷൻ ഉണ്ട് ഇപ്പോൾ ഈ ക്രമാനുഗതമായ വ്യാഖ്യാനങ്ങൾക്ക് സുസ്ഥിരതയുടെ ചില ഓർഗനൈസേഷണൽ ഇഫക്റ്റുകൾ ഉണ്ട് കൂടാതെ ഇവ ഉത്തരവാദിത്ത ധാർമ്മികത നല്ല തൊഴിൽ പരിചരണം ജോലിസ്ഥലത്തെ ഗുണനിലവാരം മുതലായവയാണ് അതിനാൽ ഇവയാണ് സംഘടനാപരമായ ഫലങ്ങൾ നിങ്ങൾ കാര്യങ്ങൾ ശരിയായി ചെയ്യുകയാണെങ്കിൽ ഇവയെല്ലാം നിറവേറ്റാൻ കഴിയുമെന്ന് ആളുകൾക്ക് തോന്നുന്നു കാര്യക്ഷമതയുടെ ചില സംഘടനാ ഫലങ്ങൾ ഉണ്ട് കൂടാതെ അവ മത്സരാധിഷ്ഠിത നേട്ടം നൂതനത്വം ഉൽപ്പാദനക്ഷമത എന്നിവ നിലനിർത്തുന്നു അതിനാൽ നിങ്ങൾ ഉൽപ്പാദനക്ഷമതയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കാര്യക്ഷമത ഉയർന്നതാണെങ്കിൽ നിങ്ങളുടെ മത്സര നേട്ടം നിലനിർത്തപ്പെടും കൂടാതെ നിങ്ങൾക്ക് നവീകരിക്കാൻ കഴിയും ഉൽപ്പാദനക്ഷമത ഉയർന്നതുമാവും അതിനാൽ പദാർത്ഥത്തിന്റെ ഓർഗനൈസേഷണൽ ഇഫക്റ്റുകൾ സുസ്ഥിരതയുടെ വ്യാഖ്യാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് കാര്യങ്ങൾ തുടരുക എന്നാണ് അർത്ഥമാക്കുന്നത് ഞാൻ വീണ്ടും സുസ്ഥിരതയിൽ ഊന്നിപ്പറയുന്നു അതായത് ഇൻപുട്ടിലൂടെ ഔട്ട്പുട്ട് സന്തുലിതമാണ് അതു വഴി പദാർത്ഥത്തിന്റെ കോണും വീണ്ടും ഓർഗനൈസേഷണൽ ഇഫക്റ്റുകൾ മനുഷ്യവിഭവങ്ങളുമായുള്ള നീണ്ടുനിൽക്കുന്ന വിതരണം ദീർഘകാല പ്രവർത്തനക്ഷമത പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ് ആരോഗ്യകരമായ തൊഴിൽ ശക്തി എന്നിവയാണ് അതിനാൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് വേണ്ടത് ഇതാണ് കൂടാതെ ഇത് ശരിയായി സൂക്ഷിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ഇതാണ് അടുത്തത് സാമൂഹിക പ്രത്യാഘാതങ്ങൾ സുസ്ഥിരതയുടെ മാനദണ്ഡ വ്യാഖ്യാനങ്ങളുടെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ സാമൂഹിക നിയമസാധുത ഓഹരി ഉടമകളോടുള്ള ഉത്തരവാദിത്തം വിശ്വാസത്തിൽ പരിശ്രമിച്ച ആരോടും ഉള്ള ഉത്തരവാദിത്തം വിശ്വാസ്യത ജീവിത നിലവാരം നല്ല ബന്ധങ്ങൾ എന്നിവയാണ് അതിനാൽ ഇവയെല്ലാം സുസ്ഥിരതയുടെ മാനദണ്ഡ വ്യാഖ്യാനങ്ങളുടെ സാമൂഹിക ഫലങ്ങൾ ആണ് കാര്യക്ഷമതാ വ്യാഖ്യാനങ്ങളുടെ സാമൂഹിക ഫലം ഹ്യൂമൻ ക്യാപിറ്റലിന്റെ ഹ്യൂമൻ ജനറേഷൻ ആണ് സുസ്ഥിരതയുടെ പദാർത്ഥ വ്യാഖ്യാനങ്ങളുടെ സാമൂഹിക ഫലങ്ങൾ എച്ച്ആർ കുടുംബങ്ങൾ സ്കൂളുകൾ എന്നിവയുടെ വിഭവങ്ങളുടെ പ്രവർത്തനക്ഷമതയാണ് കൂടാതെ ഹ്യൂമൻ ക്യാപിറ്റൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ ഭൌതിക വസ്തുക്കളാണിവ അതാകട്ടെ ഇതിലേക്ക് പോഷിപ്പിക്കുകയും അതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇങ്ങനെയാണ് ഈ ബോക്സുകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ജോലിക്കാരൻ തിരിച്ചറിയൽ വ്യക്തിഗത ഇഫക്റ്റുകൾ ക്ഷേമം എന്നിവയുണ്ട് സുസ്ഥിരതയുടെ മാനദണ്ഡ വ്യാഖ്യാനങ്ങളുടെ മാനദണ്ഡ പ്രകാരമുള്ള വ്യക്തിഗത ഫലങ്ങൾ ക്ഷേമം ജീവിത നിലവാരം സ്വത്വബോധം എന്നിവയാണ് അതിനാൽ വ്യക്തിഗത തലത്തിൽ അത് പ്രകടനം സംതൃപ്തി പ്രചോദനം എന്നിവയിലേക്ക് നയിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നു ഇത് തൊഴിൽക്ഷമതയിലേക്ക് നയിക്കുന്നതും നിങ്ങൾക്ക് ജോലി നല്കുന്നവരാലും ആജീവനാന്ത പഠനം വർക്ക് ലൈഫ് ബാലൻസ് പുനരുജ്ജീവനം ആരോഗ്യം എന്നിവയാൽ സ്വാധീനിക്കുന്നതും ആണ് ജീവനക്കാരുടെ ആരോഗ്യം നിങ്ങൾ കാണുന്നതുപോലെ ഒരുതരം താഴ്ന്ന നിലയിലാണ് നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് സംസാരിച്ചു മാനസികമായും ശാരീരികമായും സാമൂഹികമായും പോലും ആരോഗ്യവാനായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഇവിടെ ഊർജ ഉപയോഗം നോക്കുകയാണെങ്കിൽ മാനദണ്ഡങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒപ്റ്റിമൽ ഊർജ്ജ ഉപയോഗം ആണ് പേപ്പറിന്റെ ഉപയോഗം ജോലിസ്ഥലം മുതലായവയും ഉണ്ട് ഇത് ചെലവ് കുറയ്ക്കൽ ജോലിക്ക് വേണ്ടിയുള്ള യാത്ര മുതലായവയ്ക്ക് കാരണമാകുകയും ബാധിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഇത് ഹരിത ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സ്വമേധയാ ഉള്ള പ്രോഗ്രാമുകളും ബാധിക്കുകയും ഫലിക്കുകയും ചെയ്യുന്നു കൂടാതെ ഇവയെല്ലാം എച്ച്ആർഎം തന്ത്രങ്ങൾ നയങ്ങൾ സമ്പ്രദായങ്ങൾ എന്നിവയാൽ സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്നു കൂടാതെ ഇതെല്ലാം ഒരു സംഘടനാ പശ്ചാത്തലത്തിലാണ് സംഭവിക്കുന്നത് ഇത് എച്ച്ആർഎം തന്ത്രത്തിന്റെ ഉറവിടത്തിലേക്ക് ഫീഡിംഗ് ചെയ്യുന്നു എച്ച്ആർ ഉത്ഭവത്തിന്റെ ഉറവിടത്തിലേക്ക് ഫീഡ് നൽകുന്നു ഇപ്പോൾ ഇതെല്ലാം നിർണ്ണയിക്കുന്നത് സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക സ്ഥാപനപരവും സാങ്കേതികവുമായ പശ്ചാത്തലത്തിലാണ് കൂടാതെ നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്ന ചട്ടക്കൂട് ഇതാണ് മനുഷ്യവിഭവശേഷിയുടെ വിവിധ വശങ്ങൾ മനുഷ്യവിഭവശേഷിയുടെ പ്രവർത്തനത്തെ എങ്ങനെ സഹായിക്കുന്നു സുസ്ഥിരമാക്കുന്നു എന്നതിന്റെ വിശദമായ അത്രയേറെ ഉജ്ജ്വലമായ മനോഹരമായ ഒരു ചട്ടക്കൂടാണ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഇവിടെ അവതരണത്തിലേക്ക് മടങ്ങാം ഹ്യൂമൻ ക്യാപിറ്റൽ ഇതെല്ലാം ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്തു ഇപ്പോൾ ഇവയാണ് സുസ്ഥിരതയുടെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ എച്ച്ആർ പ്രവർത്തനത്തെ കൂടുതൽ സുസ്ഥിരമാക്കാൻ സഹായിക്കുന്നതിന് എച്ച്ആർ നയങ്ങളുടെ രൂപീകരണത്തെയും നടപ്പാക്കലിനെയും സ്വാധീനിക്കുന്ന ചില ഘടകങ്ങൾ സാമ്പത്തികവും സാമൂഹികവും പാരിസ്ഥിതികവുമായ പശ്ചാത്തലത്തിൽ ഉചിതമാണ് നിങ്ങൾ ചെയ്യുന്നതെന്തും ഉചിതമായിരിക്കണം അനുയോജ്യമായിരിക്കണം അതിന് നിങ്ങൾ ചെയ്യുന്ന സാമ്പത്തികവും സാമൂഹികവും പാരിസ്ഥിതികവുമായ സന്ദർഭങ്ങളുമായി പൊരുത്തപ്പെടേണ്ടതുണ്ട് നിലവിലെ ആവശ്യങ്ങൾ ഭാവി ആവശ്യങ്ങൾ ഭാവി പ്രതീക്ഷിക്കുന്ന ആവശ്യങ്ങൾ എന്നിവയുടെ പ്രസക്തി ഭാവി എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല പക്ഷേ നിങ്ങൾക്ക് ഭാവിക്കായി ആസൂത്രണം ചെയ്യാൻ കഴിയണം കൂടാതെ ഈ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും ഇപ്പോൾ അത് നേടേണ്ടതിന്റെ ആവശ്യകതയും നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് മാനേജ്മെന്റിന്റെ പിന്തുണ നിർണായകമാണ് സുസ്ഥിര ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രോഗ്രാമിന്റെ വിജയത്തിന് നയങ്ങൾ നിർവചിക്കുന്നതിലും നയങ്ങൾ നടപ്പിലാക്കുന്നതിലും ഉയർന്ന മാനേജ്മെന്റ് പങ്കാളിത്തത്തിൽ നിന്നുള്ള പിന്തുണ നിർണായകമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മനുഷ്യവിഭവശേഷി സുസ്ഥിരമാക്കാൻ സഹായിക്കുന്ന നയങ്ങൾ നീതിയെക്കുറിച്ചുള്ള ധാരണ ഇതിൽ അധികം ഊന്നിപ്പറയാൻ കഴിയില്ല ജീവനക്കാർ നയങ്ങൾ നീതിയുക്തമാക്കാൻ നിങ്ങൾക്ക് പരമാവധി ശ്രമിക്കാം പക്ഷേ നിങ്ങൾക്കറിയാവുന്നതുപോലെ ജീവനക്കാർ അവരെ ന്യായമായി കാണുന്നതുവരെ അവരെ ന്യായമായി കണക്കാക്കാനാവില്ല കൂടാതെ നയങ്ങൾ ന്യായമാണെന്ന് ജീവനക്കാർക്ക് തോന്നുന്നുവെങ്കിൽ അവരുടെ പ്രചോദനം വർദ്ധിക്കും അവരുടെ ഇടപെടൽ വർദ്ധിക്കും സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങളിലേക്കുള്ള അവരുടെ സംഭാവന വർദ്ധിക്കും അതിനാൽ ഇതെല്ലാം ഒരു തരത്തിൽ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ സ്ട്രാറ്റജിക് എച്ച്ആർഎമ്മിന്റെ മൾട്ടി ലെവൽ മാതൃകയെ കുറിച്ചുള്ള പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകും ഇപ്പോൾ ജീവനക്കാർ നിങ്ങളെ വിശ്വസിക്കുന്നുവെങ്കിൽ ജീവനക്കാർക്ക് സിസ്റ്റത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അവരുടെ പ്രചോദനം പ്രകടനം നടത്താനുള്ള അവരുടെ സന്നദ്ധത എന്നിവ ഉയരും കൂടാതെ അത് ടീമിന്റെ ഘട്ടത്തിൽ ഓർഗനൈസേഷന്റെ ഘട്ടത്തിൽ ഹ്യൂമൻ ക്യാപിറ്റലിന്റെ രൂപീകരണത്തിന് കാരണമാകും അതിനാൽ ഇതെല്ലാം ഇവിടെ വളരെ പ്രധാനമാണ് ഈ പ്രക്രിയയെ സംബന്ധിച്ച് അവർക്കുള്ള വിശ്വാസം നീതിയെക്കുറിച്ചുള്ള ധാരണ ഇവിടെ തികച്ചും നിർണായകമാണ് ദൃശ്യപരതയും നയങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള എളുപ്പവും നിങ്ങൾ ഒരു നയം രൂപീകരിക്കുക എന്നാൽ ജീവനക്കാർക്ക് നയം മനസ്സിലായില്ലെങ്കിൽ അവർക്ക് സംഭാവന നൽകാൻ കഴിയില്ല അവർക്ക് ആ നയങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല കൂടാതെ അവർക്ക് ആ നയങ്ങൾ പിന്തുടരാൻ കഴിയില്ല അതിനാൽ അത് തികച്ചും അനിവാര്യമാണ് വ്യത്യസ്ത ആളുകൾ ഉണ്ടാക്കുന്ന നയങ്ങൾ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത നയങ്ങളുടെ രൂപീകരണത്തിന് സംഭാവന നൽകുന്നതായിരിക്കണം പക്ഷേ നയങ്ങൾ രൂപീകരിക്കേണ്ടത് അവരെ ഒന്നിപ്പിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പുമായി കൂടിയാലോചിച്ചാണ് വ്യത്യസ്ത മുതിർന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായ ഇൻപുട്ടുകൾ ലഭിക്കുമ്പോൾ ഇടയ്ക്കിടെ അവർ പരസ്പരം സംസാരിക്കുന്നില്ലെങ്കിൽ നയങ്ങൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അവ പരസ്പരം വിരുദ്ധമാണെന്ന് തോന്നാം അതിനർത്ഥം തീരുമാനമെടുക്കുന്നവർക്കിടയിൽ പൊരുത്തക്കേട് ഉണ്ടെന്ന് മനസ്സിലാക്കാം എന്നാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ എച്ച്ആർ വ്യക്തി പറയുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ടീം മാനേജർ അല്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർവൈസർ ഫ്ലെക്സി സമയം കുഴപ്പമില്ല എന്ന് പറയുന്നു തുടർന്ന് നിങ്ങളുടെ എച്ച്ആർ മേധാവിയോ എച്ച്ആർ ഡിപ്പാർട്ട്മെന്റോ നിങ്ങൾ ആഴ്ചയിൽ 20 മണിക്കൂർ എന്ന പരിധി കടക്കാത്തിടത്തോളം ഫ്ലെക്സി മണിക്കൂറുകൾ കുഴപ്പമില്ല എന്ന് പറയുന്നു അതിനാൽ ഫ്ലെക്സിബിൾ ടൈമിംഗുകൾക്ക് ഉപയോഗിക്കാവുന്ന 20 പ്രധാന മണിക്കൂർ ജോലി നിങ്ങൾക്ക് ആവശ്യമാണ് ഒപ്പം നിങ്ങളുടെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ പറയുന്നു ഫ്ലെക്സിബിൾ സമയം ഓക്കേ ആണ് കൂടാതെ ഈ വിശദാംശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുമില്ല എച്ച്ആർ മാനേജറും ഇത് പറയുന്നു പിന്നെ പെട്ടെന്ന് സീനിയർ വിപിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കുറിപ്പോ മെമ്മോയോ ലഭിക്കുന്നു ധാരാളം ആളുകൾ രാവിലെ തന്നെ ഓഫീസിലേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നു കൂടാതെ രാത്രി വൈകിയും ധാരാളം ആളുകൾ വരുന്നു ഇത് ഒരുപക്ഷേ എസി ഗാർഡ് ലൈറ്റുകൾ കമ്പ്യൂട്ടറുകൾ മുതലായവയുടെ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഉയർന്ന പ്രവർത്തനച്ചെലവിന് കാരണമാകുന്നു അതിനാൽ 40 മണിക്കൂർ ജോലിയുള്ള ആഴ്ചയിൽ നമ്മൾക്ക് പരമാവധി 10 മണിക്കൂറിൽ കൂടുതൽ ഫ്ലെക്സി സമയം ലഭിക്കില്ല പിന്നെ നിങ്ങൾ എന്താണ് അവിടെ നടക്കുന്നതെന്ന് പറയുന്നു എന്തുകൊണ്ടാണ് അവിടെ സ്ഥിരതയില്ലാത്തത് അല്ലെങ്കിൽ ഈ വ്യക്തി പറയുന്നു നിങ്ങൾ എന്ത് ചെയ്യാനാഗ്രഹിക്കുന്നുവോ അത് രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയുള്ള പരിധിക്കുള്ളിൽ ചെയ്യുക അതിന് അപ്പുറത്തേക്കല്ല അതിനാൽ നിങ്ങൾ പറയുന്നു എന്തുകൊണ്ടാണ് ഈ ആളുകൾക്ക് പരസ്പരം സംസാരിച്ച് കൃത്യമായി എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഞങ്ങളെ അറിയിക്കാൻ കഴിയാത്തത് അതിനാൽ അവിടെ പൊരുത്തക്കേടുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് എച്ച്ആർ വകുപ്പ് പറയുന്നു ഫ്ലെക്സിബിൾ ടൈമിംഗുകളൊന്നുമില്ല നിങ്ങൾ വൈകി വന്നാൽ നിങ്ങൾക്ക് വൈകി വന്നതിന് പിഴയുണ്ടാകും ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പം തീരുമാനങ്ങൾ എടുക്കുന്നവർക്കിടയിൽ സ്ഥിരത ഇല്ലെങ്കിൽ ഉണ്ടാകുന്നു പിന്നെ പോളിസി രൂപീകരണത്തിൽ ജീവനക്കാരുടെ പിന്തുണ എന്നത് മറ്റൊന്നാണ് നയരൂപീകരണത്തിൽ ജീവനക്കാരുടെ പങ്കാളിത്തം ആവശ്യമാണ് പോളിസികൾ രൂപീകരിക്കുന്നതിന് ജീവനക്കാർ സമ്മതിക്കേണ്ടതുണ്ട് കാരണം യഥാർത്ഥത്തിൽ അവ നടപ്പിലാക്കാൻ പോകുന്നത് അവരാണ് അവരുടെ സമ്മതം ഇല്ലെങ്കിൽ അവർക്കായി ഉണ്ടാക്കുന്ന നയങ്ങൾ നടപ്പിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ഈയിടെ DRW ടെക്നോളജീസിനെക്കുറിച്ചുള്ള ഒരു കേസ് എന്റെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു കൂടാതെ അവർ കൈകാര്യം ചെയ്ത പ്രശ്നം ഇതാണ് അതിനാൽ ആ കേസ് സ്റ്റഡിയിൽ നിങ്ങൾക്ക് കൈ വയ്ക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾക്ക് സഹായകമായേക്കാം ഹാർവാർഡ് ബിസിനസ് റിവ്യൂവിലൂടെ കേസ് സ്റ്റഡി ലഭ്യമാണ് എനിക്ക് കേസ് സ്റ്റഡി നിങ്ങളുമായി പങ്കിടാൻ കഴിയില്ല പക്ഷേ ഞാൻ നിങ്ങൾക്ക് അതിന്റെ പേര് നൽകിയിട്ടുണ്ട് വ്യക്തവും പ്രവർത്തന അധിഷ്ഠിതവുമായ ആശയവിനിമയം ജീവനക്കാരുടെ ആവശ്യമുള്ള പെരുമാറ്റത്തിന്റെ സൂചന ഉൾപ്പെടെ വളരെ നിർണായകമാണ് അവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജീവനക്കാർ അറിയേണ്ടതുണ്ട് എവിടെയാണ് തെറ്റ് സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിയണം എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ അറിയണം കൂടാതെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് തുടർന്ന് അവർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കണം പിന്നെ തീർച്ചയായും ഈ നയങ്ങൾ പാലിക്കാത്തതിന്റെ അനന്തരഫലങ്ങൾ എന്താണെന്ന് അവർ അറിയേണ്ടതുണ്ട് അതെല്ലാം വ്യതമായിരിക്കണം ഏത് അവ്യക്തതയും ഓർഗനൈസേഷനെതിരേ കോടതിയിൽ നടത്താം അതിനാൽ ദയവായി മുഴുവൻ പറയരുത് പക്ഷേ മൊത്തത്തിൽ എച്ച്ആർ പോളിസികൾ രൂപീകരിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും സ്വാധീനം ചെലുത്തുന്ന ചില ഘടകങ്ങൾ ഇവയാണ് അത്രമാത്രം അടുത്ത ക്ലാസിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ മറ്റൊരു വശത്തേക്ക് നമ്മൾ നീങ്ങും